നമസ്കാരം നമുക്ക് ക്ലൌഡ് കംപ്യൂട്ടിങ്ങിന്റെ ചർച്ചയിലേക്ക് വീണ്ടും തിരിച്ചു വരാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരുപാട് കോമേഴ്സിയൽ ക്ലാഡും എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുവാനും സാധിക്കുന്നു നമുക്കിന്ന് ഗൂഗിൾ ക്ലൌഡ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ചർച്ച ചെയ്യാം അതിനുവേണ്ടി ഒരു ചെറിയ ഡെമോ കൂടി കാണിക്കാം അതിലൂടെ ഒരു ആപ്പ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ഗൂഗിൾ ക്ലൌഡ് പ്ലാറ്റ്ഫോമിൽ വെബ് ആപ്പ് ഹോസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും നമുക്ക് നോക്കാം അത് ഉപഭോക്താവിന് ഉപയോഗിക്കാൻ എളുപ്പവും ആയിരിക്കണം ഇത് നിങ്ങൾക്ക് പരിശീലിക്കാൻ വേണ്ടിയുള്ളതാണ് അതിനായി ഒരു സൌജന്യ അക്കൌണ്ട് അതായത് ഒരു ഡെമോ അക്കൌണ്ടാണ് കാണിക്കുന്നത് അത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്നും പരിശീലിച്ച് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് അറിയാം ഗൂഗുൾ എന്നിങ്ങനെ ഉണ്ട്

ഇതിനെ അടിസ്ഥാനമാക്കി നമ്മൾക്ക് ഗൂഗുൽ ക്ലൌഡ് പളാറ്റ്ഫോമിനെ കുറിച്ച് നോക്കാം ഇത് ഒരു കൂട്ടം സർവീസുകൾ നമ്മൾക്ക് തരുന്നു ഡെവലപ്പർമാർക്ക് ഗൂഗിൾ അടിസ്ഥാനമാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ ചെയ്യാനും സാധിക്കും അല്ലെങ്കിൽ ക്ലൌഡിൽ ഒരു സങ്കീർണമായ ആപ്ലിക്കേഷൻ പ്രദർശിപ്പിക്കാനും സാധിക്കും കുറച്ചു കൂടി വിശാലമായ കാഴ്ചപാടിൽ നോക്കുകയാണെങ്കിൽ ഇതിന് ഉണ്ടാക്കുകയും സൂക്ഷിക്കയും അനലയിസ് ചെയ്യുകയും എന്നതാണ് മൂന്നു മോട്ടോകൾ നോക്കുകയാണെങ്കിൽ ഇവക്ക് എല്ലാം വ്യത്യാസം വരുത്തുന്നതും കൂട്ടുന്നതും ആയിട്ട് കാണുവാൻ സാധിക്കും ഗൂഗിൾ അപ്പോൾ നമ്മളുടെ സൈറ്റിനെ ഗൂഗിൾ ഇൻഫ്രാസ്ട്രക്ച്ചറിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നു ഗൂഗിളിൽ ബില്യണുകളിലുള്ള റിസൾട്ടുകൾ ആണ്

ഇത് അപ്പോൾ പുതുമയുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കുന്നു പുതുമയുള്ള ഇൻഫ്രാസ്ട്രക്ച്ചർ ഉണ്ടാക്കുന്നു ഇതാണ് ഓരോ ഗൂഗിൾ പ്ലാറ്റ്ഫോമും തരാൻ ഉദ്ദേശിക്കുന്നത് ഉപഭോക്താവിൻറെ ഭാഗത്തുനിന്നു നോക്കുമ്പോൾ അവർ കൂടുതലും ആപ്ലിക്കേഷനെയോ പ്രോഡക്റ്റിനേയോ ആണ് ശ്രദ്ധിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കുകയും വിന്യസിക്കുകയും വീണ്ടും ആപ്ലിക്കേഷനുകളെ ആവർത്തിക്കാനും ചെയ്യാൻ പറ്റുന്നതിനെ നോക്കുന്നു സിസ്റ്റം അഡ്മിനിസ്ട്രേഷനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ഉപഭോക്താക്കൾ നോക്കുന്നു ഗൂഗിൾ നമ്മുടെ ആപ്ലിക്കേഷനും ഡേറ്റാബേസും സ്റ്റോറേജ് സർവറിനേയും കൈകാര്യം ചെയ്യുന്നു നമ്മൾക്ക് അപ്പോൾ ഇവയൊന്നും കൈകാര്യം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ മാനേജ് സർവീസും കൂടെ വരുന്നത് മറ്റൊരു ആശയം എന്നത് മിക്സ് ആന്റ് മാച്ച് ഗൂഗുൽ ക്ലൌഡ് പ്ളാറ്റ്ഫോം കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷന്റെ എല്ലാ ആർക്കിടെക്ച്ചറും ഇത് തരുന്നു നമുക്ക് ഇവയെ അപ്പോൾ കൂട്ടി ചേർത്തും അല്ലാതെയും എല്ലാം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ കംപ്യൂട്ട് സ്റ്റോറേജ് സർവീസ് അതാണ് ഇവയുടെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് ഇവയെ കൂട്ടി ചേർത്ത് നമ്മുടെ ആപ്ലിക്കേഷനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് മറ്റൊരു ഉപയോഗം എന്നത് ഇതിനെ പതിനായിരക്കണക്കിന് ഉപഭോക്താക്കൾക്ക് വേണ്ടി സ്കെയിൽ ചെയ്യുവാൻ പറ്റും ഗൂഗിളിൽ യൂസർ ബെയ്സ്സും ഇൻഫ്രാസ്ട്രച്ചറും ഉണ്ട് അവയെ നമുക്ക് പതിനായിരക്കണക്കിന് ഉപഭോക്താക്കൾക്ക് വേണ്ടി സ്കെയിൽ ചെയ്യുവാനും സാധിക്കും ആപ്പോൾ നമ്മൾ എത്രയാണ് ഉപയോഗിക്കുന്നത് എന്നതനുസരിച്ച് കാശു കൊടുത്താൽ മതി സ്കെയിൽ അപ്പ് ക്ലൌഡ് പ്ളാറ്റ്ഫോമിനെ തയാറാക്കിയിരിക്കുന്നത് ഗൂഗുളിന്റെ സ്വന്തം പ്രോഡക്ട് എന്ന രീതിയിൽ സ്കെയിൽ ചെയ്യുവാൻ ആണ് വലുതായിട്ട് ട്രാഫിക്ക് തരുന്നു അപ്പോൾ ഉപഭോക്താക്കളുടെ അളവനുസരിച്ച് അത് നമ്മുടെ ആപ്ലികേഷനിൽ വളർത്തും മാനേജ് സർവീസുകളായ ജി ഐ ഇ ഗൂഗുൾ ആപ്പ് എൻജിനും ചെയ്യും ഗൂഗിൾ ക്ലൌഡ് പ്ലാറ്റ്ഫോമിന്റെ പെർഫോമൻസ് ആയിട്ടും വരും അടുത്തത് സഹായം തരുന്നത് ലോകം മുഴുവനുമുള്ള ഉപഭോക്താക്കളുടെ കമ്മ്യൂണിറ്റിയും പാർട്ണർ എക്കോസിസ്റ്റവും ഗൂഗിൾ തരുന്നുണ്ട് അങ്ങനെ ഒരു വലിയ കൂട്ടം സോതസ്സുകൾ നമുക്ക് ഇത് തയ്യാറാക്കാനും വളരാനും വേണ്ടി ഗൂഗിൾ തരുന്നു അങ്ങനെ ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തലവേദന നമുക്ക് ഒരുപാട് കുറഞ്ഞു കിട്ടുന്നു അതിൻറെ കൂടെ തന്നെ നമ്മൾ എത്രമാത്രം സർവീസ് ആണോ ഉപയോഗിക്കുന്നത് അതിനു മാത്രമുള്ള കാശ് നമ്മൾ കൊടുത്താൽ മതി ഇനി നമ്മൾ ഗൂഗുൾ ക്ലൌഡ് പളാറ്റ് ഫോമിലേക് നോക്കുകയാണെങ്കിൽ കംപ്യൂട്ട് സർവീസിൽ കംപ്യൂട്ട് എൻജിനും ആപ്പ് എൻജിനും ഉണ്ട് ഒന്ന് പ്രധാനമായും ഐ എ എ എസ്സ് ടൈപ്പ് ആണ് അടുത്തത് പാസ്സ് ടൈപ്പ് ആണ് ക്ലൌഡ് പളാറ്റ്ഫോം മൊത്തത്തിൽ കൈകാര്യം ചെയ്ത പ്ലാറ്റ്ഫോം നമുക്ക് തരുന്നു അതിന്റെ കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വെർച്ച്വൽ മെഷീനും അത് നമുക്ക് ഏതു സിസ്റ്റമാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടത് എന്ന് ഉള്ളത് തിരഞ്ഞെടുക്കുന്നതിന് സഹായിക്കുന്നു അതിനർത്ഥം നമ്മൾക്ക് വി എം നെ കോൺഫിഗർ ചെയ്യുവാൻ സാധിക്കും അപ്പ് എൻജിൻ അത് ഒരു പളാറ്റ്ഫോം സർവീസായിട്ട് ഉള്ളതാണ് നമ്മൾ അവിടെ കോഡിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി അവിടെ ഏച്ചു വയ്ക്കുന്നതിനോ കൈകാര്യം ചെയ്യുന്നതിനൊ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡെവലപ്പ്മെന്റ് പ്ലാറ്റ്ഫോം വേണം ഇതിലൂടെ നമ്മൾക്ക് റോ വെർച്ച്വൽ മെഷീനിലോട്ട് തരത്തിൽ ഉള്ള സർവീസാണ് രണ്ടാമത് സ്റ്റോറേജ് ഇത് ഒരുപാട് തരത്തിലുള്ള സ്റ്റോറേജുകൾ തരുന്നു അതായത് ക്ലൌഡ് സ്റ്റോറേജ് ക്ലൌഡ് എസ് ക്യൂ എൽ ക്ലൌഡ് ഡേറ്റ സ്റ്റോർ പെർസിസ്റ്റന്റ് ഡിസ്ക് ഡേറ്റബേസും കിട്ടുന്നു ക്ലൌഡ് സ്റ്റോറേജ് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലോകവ്യാപകമായ ഒബ്ജക്റ്റ് സ്റ്റോറേജുകൾ തരുന്നു അതായത് നമുക്ക് അടിസ്ഥാനപരമായി ഇവയെ ആഗോളപരമായി സൂക്ഷിക്കുകയും എടുക്കുകയും ചെയ്യാൻ സാധിക്കും അടുത്തത് ആപ്പ് സർവീസ് അതിൽ ബിഗ് ക്വയറി എന്നിവ ഉണ്ട് അവ ഗൂഗിൾ എ പി ഐ യുമായി ചേരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രവർത്തനം നമ്മുടെ ആപ്ലിക്കേഷന് കിട്ടുന്നു ഈ ആപ്പ് സർവീസുകൾ വെച്ച് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാവുന്നതാണ് നമുക്ക് എളുപ്പത്തിൽ ഗൂഗിൾ പ്ലാറ്റ്ഫോമിന്റെ സംയോജനം ഉപയോഗിച്ച് ഇത് ചെയ്യാം ഇതാണ് ഗൂഗുളിൽ ഉള്ള പല തരത്തിലുള്ള മോഡ്യൂളുകളുടെയും ഉം ആയിട്ടുള്ളവയുടെ ഉദാഹരങ്ങൾ കാണിക്കുകയും അവ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നും മനസ്സിലാക്കിച്ചു തരുക എന്നതുമാണ് ഇനി ഞാൻ രണ്ട് ആപ്ലിക്കേഷനുകളുടെ ഉദാഹരണങ്ങൾ കാണിച്ചു തരാം ഉപഭോക്താവിന്റെ ഭാഗത്തു നിന്നും നോക്കുമ്പോൾ ഉള്ളവ നമ്മൾ നമ്മുടെ വെബ് ആപ്ലിക്കെഷനുകളെ ഗൂഗിൾ ക്ലൌഡ് പളാറ്റ്ഫോമിലേക്ക് മാറ്റുന്നു എന്നു കരുതുക കുറച്ചു കൂടി നല്ല പെർഫോമൻസിനു വേണ്ടി അത് നമുക്ക് ഗൂഗിൾ ആപ്പ് എൻജിൻ വച്ച് ചെയ്യുവാൻ സാധിക്കും നമ്മളുടെ ആപ്ലിക്കേഷൻ ഉപദോക്താവ് എങ്ങോട്ടൊക്കെ പോകുന്നുവോ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും അവിടെ നമ്മുടെ ആപ്ലിക്കേഷനെ സ്കെയിൽ ചെയ്യുവാൻ വേണ്ടി ഗൂഗിൾ ക്ലൌഡ് എൻഡ് പോയിൻറ് ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മൾ ഗൂഗിൾ സർവീസിനെ ആപ്പിക്കേഷനിലോട്ട് ഇൻഡഗ്രേറ്റ് ചെയ്യുകയാണ് ആ ആപ്ലിക്കേഷൻ ലോക്കലായിട്ടോ ക്ലൌഡിലോ ആയിരിക്കും ഗൂഗുൾ എ പി ഐ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നത് ഗൂഗുൾ ആപ്പ് എൻജിൻ ഗൂഗുൾ എൻഡ് പോയിന്റ് ഗൂഗിൾ എ പി ഐ എന്നിവ വളരെ പ്രധാനപ്പെട്ടവയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്ന രണ്ട് ഉദാഹരണങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണിച്ചുതരാമെന്ന് അതിനുശേഷം നിങ്ങൾക്ക് സ്വന്തമായി ഈ സങ്കീർണമായ ഉദാഹരണങ്ങൾ ചെയ്തു നോക്കാവുന്നതാണ് അതിലെ ഒന്ന് വെബ് പേജിനെ ഗൂഗിൾ ക്ലൌഡ് പ്ലാറ്റ്ഫോമിൽ ഹോസ്റ്റ്ചെയ്യുക എന്നതാണ് അതായത് നമ്മുടെ കയ്യിൽ നേരത്തെ ഒരു വെബ് പേജ് ഡിസൈൻ ഉണ്ട് നമുക്ക് വെബ് പേജിനെ ഗൂഗിൾ ക്ലൌഡ് പ്ലാറ്റ്ഫോമിലോട്ട് അപ്ലോഡ് ചെയ്യണം അതിൻറെ സ്റ്റോറേജിനെ ഇതിന് ഉപയോഗിക്കണം രണ്ടാമത്തേത് വെബ് ആപ്ലിക്കേഷനെ ഗൂഗിൾ ആപ്പ് എൻജിൻ വെച്ച് ഉണ്ടാക്കണം ഈ ക്ലൌഡിൽ ആദ്യമായി വന്നവർക്ക് മനസ്സിലാക്കാൻ ഇത് ഒരുപാട് സഹായിക്കും ഈ ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്തിൽ നോക്കാം ശ്രേയ ആയിരിക്കും എന്റെ കൂടെ ഉണ്ടാവുക ശ്രേയ നിങ്ങൾക്ക് ഗൂഗിൾ വെബ് പേജിനെ എങ്ങനെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെബ് പേജിനെ ഗൂഗുൾ ആപ്പ് എൻജിൻ വഴി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നു കാണിച്ചു തരും